ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ടെസ്റ്റിംഗിന്റെ ചില അടിസ്ഥാന ആശയങ്ങൾ പരിശോധിച്ചിരുന്നു പിന്നീട് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് കേസുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും വ്യത്യസ്ത തരം ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നിവയും ഞങ്ങൾ നോക്കി പിന്നീട് ഞങ്ങൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് കവറേജ് അടിസ്ഥാനമാക്കിയുള്ളതും ഫോൾട്ട് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കുകളും നോക്കി ഞങ്ങൾ ഇന്റേഗ്രേഷനും സിസ്റ്റം പരിശോധനയും നോക്കി ഇന്ന് ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് നോക്കുന്നു പരിശോധനയുടെ മറ്റൊരു ഡൈമെൻഷൻ ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് വാസ്തവത്തിൽ എല്ലാത്തരം പരിശോധനകൾക്കും യൂണിറ്റുകൾക്കും ഇന്റേഗ്രേഷനും സിസ്റ്റം പരിശോധനകൾക്കും ഇത് ബാധകമാണ് റിഗ്രഷൻ ടെസ്റ്റിംഗിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം റിഗ്രഷൻ ടെസ്റ്റിംഗ് നോക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിനെക്കുറിച്ച് നമുക്ക് അത് കുറച്ചുകൂടി ഓർക്കാം കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ശ്രദ്ധാപൂർവ്വം ഡെവലപ്മെന്റ് പര്യാപ്തമായ ടെസ്റ്റിങ് എന്നിവയുൾപ്പെടെ ഒരു മാനേജർ നു ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കോഡിൽ ഇപ്പോഴും അവശേഷിക്കുന്ന എററുകളുടെ എണ്ണം അദ്ദേഹം എങ്ങനെയാണ് കണക്കാക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ചില ബഗുകൾ ഇപ്പോഴും അവശേഷിക്കും ഒരു മാനേജർ സ്വാഭാവികമായും സോഫ്റ്റ്വെയറിൽ എത്ര ബഗുകൾ ഉണ്ട് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് നൂറാണോ അതതോ ആയിരക്കണക്കിനാണോ അതോ പതിനായിരക്കണക്കിന് ബഗുകളാണോ അവിടെയുള്ളത് അതിനാൽ സോഫ്റ്റ്വെയറിലെ ബഗുകളുടെ എണ്ണം കണക്കാക്കാനുള്ള സാധ്യമായ സാങ്കേതികതയായി ഞങ്ങൾ എറർ സീഡിംഗ് സാങ്കേതികത നോക്കി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ടെസ്റ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മാനേജർ സാധാരണയായി സിസ്റ്റം ടെസ്റ്റിംഗ് പ്രോഗ്രാമിൽ ആർബിറ്റററി മാറ്റങ്ങൾ വരുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു അരിതമെറ്റിക് ഓപ്പറേറ്റർ മാറ്റുന്ന രൂപത്തിലായിരിക്കാം മാറ്റങ്ങൾ ഉദാഹരണത്തിന് കോഡിലെ മൈനസ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റുകൾ പരസ്പരം മാറ്റിയേക്കാം ഒരു വേരിയബിളിന്റെ ടൈപ്പ് int ൽ നിന്ന് ഫ്ലോട്ടിലേക്ക് മാറ്റാം ഒരു എക്സ്പ്രഷനിൽ ആയിരിക്കാം വേരിയബിൾ b നെ മറ്റേതെങ്കിലും വേരിയബിൾ d അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കി മാറ്റാം ഇവ സാധാരണ പ്രോഗ്രാമിംഗ് എററുകളാണ് അതിനാൽ മാനേജർ ഈ നിരവധി ബഗുകൾ ഉപയോഗിച്ച് കോഡ് സീഡ് ചെയ്യുന്നു കൂടാതെ അദ്ദേഹം കോഡിൽ എത്ര ബഗ്ഗുകൾ സീഡ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഒരു നോട്ട് അദ്ദേഹം സൂക്ഷിക്കുന്നു തുടർന്ന് പരിശോധന ആരംഭിക്കുന്നു ടെസ്റ്ററുകൾക്ക് സീഡ്ഡ് ബഗ്ഗുകൾ എന്താണെന്ന് അറിയില്ല തുടർന്ന് ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എററുകൾ കണ്ടെത്തുകയും തുടർന്ന് അവ ഡീബഗ് ചെയ്യുകയും സീഡ് ചെയ്ത ചില ബഗുകൾ പ്രത്യക്ഷപ്പെട്ടതായി മാനേജർ കണ്ടെത്തിയാൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും ചെയ്യും അതിനാൽ സോഫ്റ്റ്വെയറിൽ അവശേഷിക്കുന്ന ബഗുകളുടെ എണ്ണം കണക്കാക്കാൻ ഞങ്ങൾ ഡിറൈവ് ചെയ്യുന്ന എക്സ്പ്രെഷൻ ഇത് വിശദീകരിക്കുന്നു ഈ നീല റെക്റ്റാഗിൾ പ്രോഗ്രാം ആയും ചുവന്ന ഡോട്ടുകൾ എല്ലാം ശ്രദ്ധാപൂർവ്വമായ ഡിസൈൻ കോഡിംഗ് ടെസ്റ്റിംഗ് നോട്ട് ടെസ്റ്റിംഗ് ഡിസൈൻ കോഡിംഗ് എന്നിവയ്ക്ക് ശേഷവും കോഡിൽ അവശേഷിക്കുന്ന ബഗുകളായി സങ്കൽപ്പിക്കുകയാണെങ്കിൽ അവശേഷിക്കുന്ന ബഗുകൾ ഇവയാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉപഭോക്താവിന് കൈമാറുമ്പോൾ എത്ര ബഗുകൾ അവശേഷിക്കുമെന്നതിന്റെ ഒരു കണക്ക് മാനേജർക്ക് ലഭിക്കാൻ ഈ വയലറ്റ് ഡോട്ടുകൾ പ്രതിനിധീകരിക്കുന്ന നിരവധി ബഗുകൾ സീഡ് ചെയ്യുന്നു സോഫ്റ്റ്വെയറിൽ യഥാർത്ഥത്തിൽ അവശേഷിക്കുന്ന ബഗ്ഗുകളായ ചുവന്ന ഡോട്ടുകൾ ഇത് ക്യാപിറ്റൽ N ആയിരിക്കട്ടെ മാനേജർ S എണ്ണം ബഗുകൾ സീഡ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ S എണ്ണം ബഗുകൾ ഉണ്ടാവും പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സിസ്റ്റം പരിശോധന തുടർന്ന് സിസ്റ്റം ടെസ്റ്റിംഗ് എടുക്കുമ്പോൾ ബഗുകൾ കണ്ടെത്താനാകും കൂടാതെ സീഡുചെയ്ത ബഗുകളുടെ ചെറിയ s എണ്ണം കണ്ടെത്താനും കോഡിലെ ചെറിയ n നമ്പർ യഥാർത്ഥ എററുകൾ കണ്ടെത്താനും അനുവദിക്കുക തുടർന്ന് ഫാസ്റ്റ് അപ്പറോക്സിമേഷനിൽ നമുക്ക് n N എന്നത് s S ന് തുല്യമാണെന്ന് എഴുതാം എന്നാൽ ഈ എക്സ്പ്രെഷൻ എഴുതാൻ ഞങ്ങൾ ഒരു ഇംപ്ലിസിറ്റ് അനുമാനം ഉണ്ടാക്കി ഈ എക്സ്പ്രെഷൻ വികസിപ്പിച്ചെടുക്കുന്നതിൽ എന്തൊക്കെയാണ് ഇവിടെ ഇംപ്ലിസിറ്റ് ആയ അനുമാനം ഇംപ്ലിസിറ്റ് ആയ അനുമാനം യഥാർത്ഥ ബഗുകൾ കണ്ടുപിടിക്കുന്ന നിരക്ക് സീഡ് ചെയ്ത ബഗുകൾ കണ്ടുപിടിക്കുന്ന നിരക്കിന് തുല്യമാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സീഡ് ചെയ്ത ബഗുകൾ വളരെ എളുപ്പമുള്ള തരം ബഗ് അല്ല വളരെ വ്യക്തമായ ബഗുകൾ അല്ല ടെസ്റ്റിംഗ് ആരംഭിച്ച ഉടൻ തന്നെ അത് കണ്ടെത്താനാകും അല്ലെങ്കിൽ ഇവയും വളരെ ഇൻസീഡിയസ് ആയതോ വളരെ സങ്കീർണ്ണമായതോ ആയ ബഗുകളല്ല ടെസ്റ്റ് വഴി കണ്ടെത്താനാകില്ല അവ കോഡിൽ തന്നെ തുടരും അതിനാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഇംപ്ലിസിറ്റ് ആയ അനുമാനം കോഡിൽ അവശേഷിക്കുന്ന ബഗുകളുടെ ടൈപ്പ് സീഡ് ചെയ്ത ബഗുകളുടെ ടൈപ്പ്മായി പൊരുത്തപ്പെടുന്നു ബഗുകളുടെ ടൈപ്പ് മാത്രമല്ല അവയുടെ ഫ്രീക്വെൻസി ഉം അതിനാൽ അരിതമെറ്റിക് എക്സ്പ്രഷൻ ഇന്റർചേഞ്ച് അവശേഷിക്കുന്ന ഒരു ടൈപ്പ് ബഗ് ആണെങ്കിൽ അവ സംഭവിക്കുന്നത് ഏകദേശം 5 ശതമാനമാണെങ്കിൽ സീഡഡ് ബഗുകളും അരിതമെറ്റിക് എക്സ്പ്രേഞ്ച് ഇന്റർചേഞ്ച് 5 ശതമാനമായിരിക്കും മാത്രമല്ല എറർ സംഭവിക്കുന്ന കോഡിൽ അതിന്റെ ലൊക്കേഷൻ നിർദ്ദിഷ്ട കംപോണൻറ് ഉം അത് പ്രധാനമാണ് കാരണം ചില കംപോണൻറ് വളരെ കൂടുതലായി ഉപയോഗിക്കുന്നു ചില കംപോണൻറ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഈ എക്സ്പ്രെഷൻ നിലനിർത്തുന്നതിന് ബഗുകളുടെ ടൈപ്പ് ഫ്രീക്വെൻസി മാത്രമല്ല കോഡിലെ അവയുടെ ലൊക്കേഷൻ ഏകദേശം പൊരുത്തപ്പെടണം ഇപ്പോൾ എങ്ങനെയെങ്കിലും ബഗുകളുടെ ടൈപ്പ് അവയുടെ ഫ്രീക്വെൻസി അവയുടെ ലൊക്കേഷൻ മുതലായവ അറിയാൻ മാനേജർക്ക് ഒരു വഴിയുണ്ടെന്ന് അനുമാനിക്കാം അതനുസരിച്ച് അദ്ദേഹം ബഗ് സീഡ് ചെയ്യുന്നു ആ സാഹചര്യത്തിൽ നമുക്ക് ഈ എക്സ്പ്രെഷൻ ലഘൂകരിക്കാനും പരിശോധനയ്ക്ക് മുമ്പ് അവശേഷിക്കുന്ന ബഗുകൾ കണ്ടെത്താനും കഴിയും ക്യാപിറ്റൽ N എന്നത് ക്യാപിറ്റൽ S n s ആണ് പക്ഷേ അവയിൽ ചെറിയ n പരിശോധന സമയത്ത് കണ്ടെത്തി അതിനാൽ പരിശോധനയ്ക്ക് ശേഷം അവശേഷിക്കുന്ന ബഗുകൾ N n അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രെഷൻൽ ഇത് മാറ്റി n s എഴുതാം കോഡിൽ നിലനിൽക്കുന്ന ബഗുകളുടെ എണ്ണമാണിത് ഇപ്പോൾ ഈ ആശയത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു ചെറിയ ക്വിസ് തയ്യാറാക്കാം സിസ്റ്റം ടെസ്റ്റിംഗിന് മുമ്പ് ഒരു മാനേജർ ടെസ്റ്റർസ് നും ഡവലപ്പർമാർക്കും അജ്ഞാതമായ 100 ബഗുകൾ കോഡിൽ അവതരിപ്പിച്ചുവെന്ന് കരുതുക അവൻ അവിടെ പോയി മാറ്റങ്ങൾ വരുത്തി 100 ബഗുകൾ അവതരിപ്പിച്ചു തുടർന്ന് സിസ്റ്റം ടെസ്റ്റിംഗ് ആരംഭിച്ചു സിസ്റ്റം ടെസ്റ്റിംഗ് സമയത്ത് 90 സീഡ് ബഗുകൾ കണ്ടെത്തി പക്ഷേ സിസ്റ്റം ടെസ്റ്റിംഗ് പ്രക്രിയയിൽ 50 മറ്റ് ബഗുകളും കണ്ടെത്തി അവ മാനേജർ സീഡ് ചെയ്തിട്ടില്ല അതിനാൽ കോഡിനായി ഒരു എറർ എസ്റ്റിമേറ്റ് കണ്ടെത്തുക അതിനാൽ സിസ്റ്റം ടെസ്റ്റിംഗിന് ശേഷവും എത്ര യഥാർത്ഥ ബഗുകൾ ഇപ്പോഴും കോഡിൽ നിലനിൽക്കും എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യും നമ്മൾ ഡിറൈവ് ചെയ്ത എക്സ്പ്രെഷൻ ഉപയോഗിക്കാം n N s S അവിടെ നിന്നും ഞങ്ങൾ n s ഡിറൈവ് ചെയ്തു അപ്പോൾ പ്രശ്നം വളരെ ലളിതമായിത്തീരുന്നു നമുക്ക് മൂല്യങ്ങൾ ഉചിതമായ രീതിയിൽ എക്സ്പ്രഷനിലേക്ക് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ അത് 50 90 ആണ് ഇത് ഏകദേശം 6 ആണ് അതിനാൽ ഈ കേസിൽ ഏകദേശം 6 എററുകൾ കോഡിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അനുമാനിക്കുക ക്ഷമിക്കണം ടൈപ്പ് ഫ്രീക്വെൻസിയും സീഡ്ഡ് ബഗുകളുടെ ലൊക്കേഷൻ യഥാർത്ഥ ബഗുകളുമായി പൊരുത്തപ്പെടുന്നു പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുപോലെ nN എന്ന എക്സ്പ്രെഷനിലെ ഇംപ്ലിസിറ്റ് ആയ അനുമാനം s S ന് തുല്യമാണ് എന്നതാണ് സീഡ്ഡ് ബഗുകളുടെ ടൈപ്പ് ഫ്രീക്വെൻസി ലൊക്കേഷൻ എന്നിവ ഏകദേശം നിലവിലുള്ള ബഗുകളുമായി കോഡ് പൊരുത്തപ്പെടുന്നു പക്ഷേ അവിടെ അജ്ഞാതമായ ബഗുകൾ എന്താണെന്ന് മാനേജർക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരു പരിശോധനയും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അവന് അത് അറിയില്ല അതിനാൽ ബഗുകളുടെ ടൈപ്പ് ഫ്രീക്വെൻസി ലൊക്കേഷൻ എന്നിവയുമായി ഏകദേശം പൊരുത്തപ്പെടുന്ന ബഗ്ഗുകൾ അദ്ദേഹം എങ്ങനെ സീഡ് ചെയ്യുന്നു സാധാരണയായി ചെയ്യുന്നത് ഒരു പ്രവർത്തന പരിഹാരമാണ് അവിടെ മാനേജർ ഡാറ്റ ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിനായുള്ള എറർ ഡാറ്റ നോക്കുന്നു സമാനമായ സോഫ്റ്റ്വെയർ അവശേഷിക്കുന്ന ബഗ് ഏതെല്ലാമാണെന്ന് ഉപഭോക്താവ് അറിയിച്ചതായി അദ്ദേഹം കണ്ടെത്തുന്നു അവയുടെ ഫ്രീക്വെൻസി എന്തായിരുന്നു അവയുടെ ലൊക്കേഷനുകൾ എന്തായിരുന്നു മാനേജർ അതിനനുസരിച്ചു സീഡ് ചെയ്യുന്നു അതിനാൽ ആ എക്സ്പ്രെഷൻ വാലിഡ് ആക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരമാണിത് ഇവിടെ ഒരു ക്വിസ് കൂടി ഉണ്ട് സിസ്റ്റത്തിന്റെ പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് മാനേജർ 100 ബഗുകൾ സോഫ്റ്റ്വെയറിൽ അവതരിപ്പിച്ചു ഇപ്പോൾ സിസ്റ്റം ടെസ്റ്റിംഗിനിടയിൽ ഈ 60 സീഡ് ബഗുകൾ കണ്ടെത്തി മറ്റ് 150 ബഗുകളും കണ്ടെത്തി അതിനാൽ സോഫ്റ്റ്വെയറിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ബഗുകളുടെ എണ്ണത്തെക്കുറിച്ച് മാനേജരുടെ കണക്ക് എന്തായിരിക്കും ദയവായി ഈ പ്രശ്നം പരിഹരിക്കുക നിങ്ങൾ ആ എക്സ്പ്രെഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയണം ഒരു ലളിതമായ പ്രശ്നം എക്സ്പ്രഷനിൽ അനുയോജ്യമായ സംഖ്യകൾ മാറ്റിസ്ഥാപിക്കുക ഇനി നമുക്ക് റിഗ്രഷൻ ടെസ്റ്റിംഗ് നോക്കാം ഒരു സിസ്റ്റം അപ്ഡേറ്റ് പുതിയ എററുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നേരത്തെ തിരുത്തിയ എററുകൾ വീണ്ടും അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് പരിശോധിക്കുന്നതിനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് നടത്തുന്നത് അതിനാൽ ഇതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗിന്റെ ഡെഫിനീഷൻ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉള്ളപ്പോൾ നിങ്ങൾ അതിൽ നിരവധി മാറ്റങ്ങൾ വരുത്തുന്നു അതാണ് സാധാരണ കാര്യം ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയറിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു ഉദാഹരണത്തിന് ബഗുകൾ കണ്ടെത്തുകയും അവ പരിഹരിക്കപ്പെടുകയും ചെയ്തേക്കാം അതൊരു മാറ്റമാണ് അല്ലെങ്കിൽ ചില പുതിയ സവിശേഷതകൾ ചേർത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചില സവിശേഷതകൾ പരിഷ്കരിച്ചേക്കാം അതിനാൽ ഓരോ തവണയും സോഫ്റ്റ്വെയറിൽ ഒരു മാറ്റം വരുമ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഒരു വലിയ ഭാഗം മാറാത്തതായിരിക്കും അതിനാൽ സോഫ്റ്റ്വെയറിന്റെ മാറിയ ഭാഗം ഞങ്ങൾ പരിശോധിക്കുകയും മാറ്റമില്ലാത്ത ഭാഗം പരിശോധിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ ഇല്ല ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല കാരണം ചെറിയ മാറ്റം സോഫ്റ്റ്വെയറിന്റെ മാറ്റമില്ലാത്ത ഭാഗത്ത് ബഗുകൾ ഉണ്ടാക്കും എന്തുകൊണ്ടാണ് ഡാറ്റ ഷെയറിങ് ഉം ഡാറ്റ ഡിപെൻഡെൻസിയും കാരണം മാറ്റങ്ങൾ ചില വേരിയബിളുകൾ വ്യത്യസ്ത മൂല്യങ്ങൾ അനുമാനിക്കാൻ കാരണമായേക്കാം അവ കോഡിന്റെ മാറ്റമില്ലാത്ത ഭാഗം ഉപയോഗിക്കുന്നു എന്നിട്ട് അവ ഫിൽ ചെയ്യാൻ തുടങ്ങുന്നു കോഡിന്റെ മാറ്റമില്ലാത്ത ഭാഗം എല്ലാ ടെസ്റ്റുകളും വിജയിച്ചിരിക്കാം ശരിയായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരിക്കാം പക്ഷേ എവിടെയെങ്കിലും ഒരു ചെറിയ മാറ്റം സോഫ്റ്റ്വെയറിന്റെ മറ്റേ ഭാഗത്തെ ഫെയില്യുർ കാണിച്ചേക്കാവുന്ന രണ്ട് വരികളുടെ മാറ്റം കാരണം അത് ഒരു വേരിയബിൾ മൂല്യം മാറ്റുകയും ആ മൂല്യം മറ്റ് ഭാഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു ഫെയില്യുർ ആയി കാണിക്കുകയും ചെയ്യാം അതിനാൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ കോഡിന്റെ മാറ്റമില്ലാത്ത ഭാഗത്തേക്ക് ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് നടത്തണം എന്നതാണ് ഇവിടെയുള്ള ആശയം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോഡിന്റെ ചില ഭാഗങ്ങൾക്ക് ഇതിനകം കടന്നുപോയ ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ആ ഭാഗം മാറിയിട്ടില്ലെങ്കിൽപ്പോലും ഞങ്ങൾ ആ ടെസ്റ്റ് കേസുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അതിനെ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു ചെറിയ ആനിമേറ്റഡ് ഉദാഹരണത്തിലൂടെ റിഗ്രഷൻ ടെസ്റ്റിംഗിന് പിന്നിലെ ആശയം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ നീല മേഘം ഒരു പ്രോഗ്രാം ആണെന്ന് നമുക്ക് അനുമാനിക്കാം നിരവധി ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രോഗ്രാം പരീക്ഷിച്ചു അവരെല്ലാം പാസ് ചെയ്തു റിഗ്രഷൻ ടെസ്റ്റിംഗിലൂടെ നമ്മൾ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഇത് അങ്ങനെ T1 പാസ് ചെയ്തു ഞങ്ങൾ അത് പച്ചയായി കാണിച്ചിരിക്കുന്നു T2 കൂടി പാസ് ചെയ്തു അത് പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നു T3 പാസ് ചെയ്തു ടെസ്റ്റ് T3 അത് പച്ചയും ടെസ്റ്റ് T4 ഉം വിജയിച്ചു അത് പച്ചയാണ് പക്ഷേ ഞങ്ങൾ T5 പ്രവർത്തിപ്പിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു ഒരു ചുവപ്പ് കാണിച്ചു അതിനാൽ T5 ഒരു ഫെയില്യുർ ആണെന്ന് നിരീക്ഷിക്കപ്പെട്ടു ഒരു ടെസ്റ്റ് കേസ് പരാജയപ്പെട്ടാൽ ഡവലപ്പർമാർ കോഡ് ഡീബഗ് ചെയ്യുകയും പ്രശ്നത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുകയും തുടർന്ന് എറർ തിരുത്താൻ കോഡ് പരിഷ്ക്കരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ കേസിലും ഡവലപ്പർ ജോലിയിൽ പ്രവേശിച്ചു തുടർന്ന് ഈ സ്റ്റേറ്റ്മെൻറ് b b 5 അവതരിപ്പിച്ചുകൊണ്ട് പ്രശ്നം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി അവർ കോഡ് മാറ്റിയപ്പോൾ പരാജയപ്പെട്ട ടെസ്റ്റ് കേസ് യഥാർത്ഥത്തിൽ വിജയിച്ചു അതിനാൽ T5 പച്ചയായി ടെസ്റ്റ് കേസ് പാസ് ചെയ്തു പക്ഷേ ഞങ്ങൾ മറ്റ് ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാറ്റമില്ലാത്ത ഭാഗങ്ങൾ ടെസ്റ്റ് മറ്റ് ടെസ്റ്റ് കേസുകൾ അവർ പ്രവർത്തിക്കുന്നു മാറ്റമില്ലാത്ത സ്റ്റേറ്റ്മെൻറ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നിട്ടും T3 പരാജയപ്പെട്ടു എന്തുകൊണ്ട് കാരണം അത് b എന്ന വേരിയബിൾ ഉപയോഗിക്കുന്നു a a b അതിനാൽ T3 വേരിയബിൾ b ഉപയോഗിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ b മൂല്യം മാറ്റി അതിനാൽ ശരിയായി പ്രവർത്തിക്കുന്ന T3 യുടെ കോഡ് ഒന്നും മാറ്റിയില്ലെങ്കിലും അത് പരാജയപ്പെടാൻ തുടങ്ങി അതിനാൽ അർത്ഥം ഫിക്സ് ശരിയായില്ല എന്നാണ് ഇത് b b a അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും ആയിരിക്കാം കൂടാതെ b b 5 ഈ ടെസ്റ്റ് കേസ് വിജയിപ്പിക്കുന്നു പക്ഷേ റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ പരാജയപ്പെടുന്നു അതിനാൽ സോഫ്റ്റ്വെയറിന്റെ ലൈഫ് സൈക്കിളിൽ കോഡിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നു ഏകദേശം ഈ മാറ്റങ്ങളെ കറക്ടീവ് ചേഞ്ചസ് അഡാപ്റ്റീവ് ചേഞ്ചസ് പെർഫെക്റ്റീവ് ചേഞ്ചസ് എന്നിങ്ങനെ തരംതിരിക്കാം ചില ബഗുകൾ പരിഹരിക്കുന്നതിനായി കോഡിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് കറക്ടീവ് ചേഞ്ചസ് മറ്റേതെങ്കിലും ലൈബ്രറികളിലോ മറ്റ് സോഫ്റ്റ്വെയറുകളിലോ ഹാർഡ്വെയറുകളിലോ പ്രവർത്തിക്കാൻ സോഫ്റ്റ്വെയർ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കാൻ അനുയോജ്യമാക്കുന്നതിന് കോഡിലേക്ക് അഡാപ്റ്റീവ് ചേഞ്ചസ് വരുത്തുന്നു കൂടാതെ സോഫ്റ്റ്വെയർ കൂടുതൽ മികച്ചതാക്കാൻ ഞങ്ങൾ പുതിയ സവിശേഷതകൾ ചേർക്കുന്നതോ കോഡിന്റെ ചില ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് സോഫ്റ്റ്വെയറിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതോ ആണ് പെർഫെക്റ്റീവ് ചേഞ്ചസ് അതിനാൽ ഇവ 3 പ്രധാന തരം മാറ്റങ്ങളാണ് ഓരോ തവണയും ഞങ്ങൾ കോഡ് മാറ്റുമ്പോൾ കോഡിന്റെ മാറിയ ഭാഗം പതിവുപോലെ പരീക്ഷിക്കുക മാത്രമല്ല സോഫ്റ്റ്വെയറിന്റെ മാറ്റമില്ലാത്ത ഭാഗത്ത് ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് നടത്തുകയും വേണം സോഫ്റ്റ്വെയറിന്റെ മാറ്റമില്ലാത്ത ഭാഗത്തെ ഓരോ മാറ്റത്തിനും ശേഷം മാറ്റമില്ലാത്ത ഫീച്ചറുകൾ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് റിഗ്രഷൻ ടെസ്റ്റിംഗ് ആവശ്യമാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടം ടെസ്റ്റ് കേസുകൾ ഞങ്ങളുടെ പക്കലുണ്ടെങ്കിൽ സെറ്റ് T ആണെന്ന് പറയുകയാണെങ്കിൽ ഈ ടെസ്റ്റ് കേസുകൾ ഒബ്സൊലീറ്റ് റിഡൻഡെന്റ് റിഗ്രഷൻ ടെസ്റ്റുകളുമായി വിഭജിക്കാം ചില യഥാർത്ഥ ടെസ്റ്റ് കേസുകൾ ഒബ്സൊലീറ്റ് ആയി അവ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല അവ അസാധുവാണ് അവരെ കളയണം എന്താണ് കാരണം കാരണം ഈ ടെസ്റ്റ് കേസുകൾ കോഡിന്റെ മാറ്റപ്പെട്ട ഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്നു ഒരുപക്ഷേ അവർ നൽകുന്ന ഇൻപുട്ട് മൂല്യങ്ങൾ അപര്യാപ്തമാണ് അവർ 2 ഇന്റീജറുകൾ ഇൻപുട്ട് ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് 2 ഇന്റീജറുകളും ഒരു ഫ്ലോട്ട് മൂല്യവും ആയിരിക്കും അതിനാൽ ചില ടെസ്റ്റ് കേസുകൾ മാറ്റത്തിന് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല ഇവയെ ഒബ്സൊലീറ്റ് ആയതോ ഇൻവാലിഡ് ആയതും ആയ ടെസ്റ്റ് കേസുകൾ എന്ന് വിളിക്കുന്നു ചില ടെസ്റ്റ് കേസുകൾ റിഡൻഡെന്റ് ആണ് കോഡിന്റെ ചില ഭാഗം ഞങ്ങൾ മാറ്റുമ്പോൾ മാറ്റമില്ലാത്ത കോഡിന്റെ ചില ഭാഗം ബാധിക്കപ്പെടുകയും അവ റിഗ്രഷൻ ടെസ്റ്റ് നടത്തുകയും വേണം പക്ഷേ ചില ഭാഗം ഒട്ടും ബാധിക്കില്ല വേരിയബിളിന്റെ ഷെയറിങ് ഇല്ല മാറിയ ഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്ന വേരിയബിളുകളുമായി ഡിപെൻഡെൻസി ഇല്ല അതിനാൽ മാറ്റപ്പെട്ട ഭാഗവുമായി ബന്ധപ്പെട്ട് ഇവ യഥാർത്ഥത്തിൽ കോഡിന്റെ ഇൻഡിപെൻഡെന്റ് ഭാഗമാണെന്നും ഞങ്ങൾക്ക് പരീക്ഷിക്കേണ്ടതില്ലെന്നും നമുക്ക് 100 ശതമാനം അവരെ ഉറപ്പുണ്ടായിരിക്കാം അതിനാൽ അവയെ റിഡൻഡെന്റ് ടെസ്റ്റ് കേസുകൾ എന്ന് വിളിക്കുന്നു അവ വാലിഡ് ആയ ടെസ്റ്റ് കേസുകളാണെങ്കിലും ഞങ്ങൾ അവ പ്രവർത്തിപ്പിക്കേണ്ടതില്ല കാരണം അവയ്ക്ക് എന്തെങ്കിലും ബഗുകൾ കണ്ടെത്താനുള്ള സാധ്യത പൂജ്യമാണ് സോഫ്റ്റ്വെയറിന്റെ ഇൻഡിപെൻഡെന്റ് ഭാഗം മാത്രമാണ് അവർ നടപ്പിലാക്കുന്നത് പിന്നെ ശേഷിക്കുന്ന ഭാഗം റിഗ്രഷൻ ടെസ്റ്റ് കേസുകളാണ് മാറ്റമില്ലാത്ത പ്രോഗ്രാമിന്റെ ആ ഭാഗങ്ങൾ പ്രോഗ്രാമിന്റെ മാറ്റമില്ലാത്ത ഭാഗം മാറ്റിയ ഭാഗവുമായി ചില ഡിപെൻഡെൻസികൾ നടപ്പിലാക്കുന്നവയാണ് റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ ചില വേരിയബിൾ ഡിപെൻഡെൻസി എന്നത് മാറ്റിയ ഭാഗത്ത് അസ്സൈൻ ചെയ്ത ചില വേരിയബിൾ മൂല്യങ്ങളാണ് അതിനാൽ ഈ റിഗ്രഷൻ ടെസ്റ്റുകളിൽ വളരെയധികം ഉണ്ടായിരിക്കാം വലിയ സോഫ്റ്റ്വെയറിനായുള്ള ആയിരക്കണക്കിന് റിഗ്രഷൻ ടെസ്റ്റുകൾ തിരിച്ചറിയാൻ കഴിയും ഓരോ മാറ്റത്തിനും റിഗ്രഷൻ ടെസ്റ്റ് പ്രവർത്തിപ്പിച്ചേക്കാം ആയിരം സംഖ്യകൾ ബുദ്ധിമുട്ടായേക്കാം ഒപ്റ്റിമൽ റിഗ്രഷൻ ടെസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് റിഗ്രഷൻ ടെസ്റ്റ് റിഗ്രഷൻ ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനാകും ഇത് റിഗ്രഷൻ ടെസ്റ്റുകളുടെ മുഴുവൻ സെറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനേക്കാൾ മികച്ചതാണ് എന്നാൽ ഈ സെഷനിൽ ഒപ്റ്റിമൈസ് ചെയ്ത റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ നിർണ്ണയിക്കാൻ ഈ ഒപ്റ്റിമൈസ് ചെയ്ത റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ എങ്ങനെ കണ്ടെത്താം അൽഗോരിതങ്ങൾ ടെക്നിക്കുകൾ മുതലായവ എന്തൊക്കെയാണ് എന്നാൽ റിഗ്രഷൻ ടെസ്റ്റുകൾ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് റിഗ്രഷൻ ടെസ്റ്റ് കേസുകളിൽ ഓരോ തവണയും പ്രവർത്തിപ്പിച്ച ടെസ്റ്റ് കേസുകൾ ഓരോ തവണയും കോഡിലേക്കുള്ള ഓരോ മാറ്റത്തിനും ശേഷം വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നു അതിനാൽ അങ്ങനെ സംഭവിച്ചേക്കാം യഥാർത്ഥത്തിൽ ഒരിക്കൽ നടപ്പിലാക്കിയതും രൂപകൽപ്പന ചെയ്തതും നടപ്പിലാക്കിയതുമായ ഒരു ടെസ്റ്റ് കേസ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് തവണ നടപ്പിലാക്കേണ്ടതായി വന്നേക്കാം സോഫ്റ്റ്വെയറിന്റെ ലൈഫ് ടൈം ഇൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് തവണ ഞങ്ങൾ ഒരു റിഗ്രഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ മാറ്റവും ഒരിക്കൽ സംഭവിച്ചുകഴിഞ്ഞാൽ അത് മോണോട്ടോണസ് എറർ ന് സാധ്യതയുണ്ട് അതിനാൽ ഓട്ടോമേഷൻ വളരെ പ്രധാനമാണ് ഭാഗ്യവശാൽ ഞങ്ങൾ ചർച്ച ചെയ്ത ഉപകരണങ്ങളുടെ ക്യാപ്ചർ റീപ്ലേ ടൈപ്പ് ഇവിടെ തികച്ചും അനുയോജ്യമാണെന്ന് തോന്നുന്നു കാരണം ഇൻപുട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഓട്ടോമേഷൻ ടൂളുകളുടെ ക്യാപ്ചർ റീപ്ലേ ടൈപ്പ് ആദ്യമായി ടെസ്റ്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു പാസ് ആയി കണക്കാക്കപ്പെടുന്ന ഔട്ട്പുട്ടും അവർ ക്യാപ്ചർ ചെയ്തു തുടർന്ന് ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് സ്വിച്ച് അമർത്താം അത് റെക്കോർഡ് ചെയ്ത എല്ലാ ടെസ്റ്റ് കേസുകളും ഉപകരണം പുനരാരംഭിക്കുകയും റെക്കോർഡ് ചെയ്ത ഫലവുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ പരിശോധിക്കുകയും തുടർന്ന് പരാജയപ്പെട്ട ടെസ്റ്റ് കേസുകൾ ഉണ്ടെങ്കിൽ ഫ്ലാഗ് ഫ്ലാഗ് ചെയ്യുകയും ചെയ്യും വളരെ നന്നായി കാണപ്പെടുന്നു പക്ഷേ ചില ക്യാച്ചുകൾ ഉണ്ട് ക്യാച്ചുകളെക്കുറിച്ചും ഇവയെ എങ്ങനെ മറികടക്കാമെന്നും നമുക്ക് അറിഞ്ഞിരിക്കാം ക്യാച്ച്ചർ റീപ്ലേ ടൈപ്പ് ടൂളിൽ ടെസ്റ്റ് കേസുകളുടെ മൈൻടെനെൻസ് ഒരു വലിയ പ്രശ്നമാണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ മാറ്റിയ കോഡ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച ഒരു ടെസ്റ്റ് കേസ് അതിന് അധിക പാരാമീറ്ററുകൾ ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ മുഴുവൻ ടെസ്റ്റ് കേസും ഉപേക്ഷിച്ച് വീണ്ടും റെക്കോർഡ് ചെയ്യണം ടെസ്റ്റ് കേസ് മെയ്ൻറേയ്ൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല കൂടാതെ മറ്റൊരു കാര്യം ചില കാരണങ്ങളാൽ ടെസ്റ്റ് കേസുകൾ പരാജയപ്പെടുന്നു ഇത് തീയതിയുമായി താരതമ്യം ചെയ്തേക്കാം അതിനാൽ ടെസ്റ്റ് കേസ് ചില തീയതികളിൽ പ്രവർത്തിക്കുകയും ആ തീയതിക്ക് തീയതി മൂല്യം ഉപയോഗിക്കുകയും അത് ഇൻപുട്ട് മൂല്യത്തിനായി ആ തീയതിയിൽ പാസ് ചെയ്യുകയും ചെയ്തു പക്ഷേ മറ്റേതെങ്കിലും തീയതിയിലോ സമയത്തിലോ അത് മാറിയേക്കാം കാരണം അത് അതേപടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചില സ്ക്രിപ്റ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധന ഉണ്ടെങ്കിൽ മെയ്ൻറേയ്ൻ ചെയ്യുന്നതിൽ ഉള്ള ഈ പ്രശ്നം നമുക്ക് മറികടക്കാം നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് അല്പം മാറ്റാൻ കഴിയും അത് മെയ്ൻറേയ്ൻ ചെയ്യും അതുപോലെ നമുക്ക് ആവശ്യമുള്ളിടത്ത് തീയതിയും മറ്റും ഉപയോഗിക്കാം അതിനാൽ വ്യത്യസ്ത റിഗ്രഷൻ ടെസ്റ്റിംഗ് ജോലികൾ എന്തൊക്കെയാണ് ഒന്ന് ടെസ്റ്റ് വാലിഡേഷൻ ടെസ്റ്റ് സെലക്ഷൻ ടെസ്റ്റ് മിനിമൈസേഷൻ ടെസ്റ്റ് പ്രയോറൈടൈസേഷൻ അതിനാൽ ഞങ്ങൾ ഈ സെഷന്റെ അവസാനത്തിലാണ് ഞങ്ങൾ ഇവിടെ നിർത്തും അടുത്ത സെഷനിൽ ഞങ്ങൾ ഈ പോയിന്റിൽ നിന്ന് തുടരും